ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ മൊഡ്യൂളിൽ ഒരു പ്രവർത്തന ആംപ്ലിഫയറിന്റെ കൃത്യമായ ഇൻപുട്ടും ഔട്ട്പുട്ട് ശ്രേണിയും ഞങ്ങൾ മനസ്സിലാക്കും ഒരു പ്രവർത്തന ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ശ്രേണി മനസിലാക്കാൻ വിപരീതമല്ലാത്ത ആംപ്ലിഫയറിനായി ഞങ്ങൾ ഉപയോഗിച്ച അതേ സർക്യൂട്ട് ഉപയോഗിക്കാം നോൺവെർട്ടിംഗ് ആംപ്ലിഫയർ സർക്യൂട്ട് ഉപയോഗിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ശ്രേണി എങ്ങനെ അളക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം വിപരീതമല്ലാത്ത ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ ഞങ്ങൾ ഒരു സിഗ്നൽ പ്രയോഗിക്കുന്നു അതായത് വിപരീതമല്ലാത്ത ആംപ്ലിഫയറിന്റെ വിപരീതമല്ലാത്ത ടെർമിനൽ ഞങ്ങൾ സജ്ജമാക്കിയ നേട്ടവുമായി ബന്ധപ്പെട്ട ഔട്ട്പുട്ട് അത് ഞങ്ങൾ കാണും ഞങ്ങൾ എന്ത് പരീക്ഷണങ്ങളാണ് നടത്താൻ പോകുന്നതെന്ന് മനസിലാക്കാം പ്രവർത്തന ആംപ്ലിഫയറിന്റെ ഇൻപുട്ട്ഔട്ട്പുട്ട് ശ്രേണി പഠനം ആണ് പരീക്ഷണം ഒപ് ആം സർക്യൂട്ടുകളിൽ ലിസ്റ്റുചെയ്യാത്ത ഔട്ട്പുട്ട് ഇൻപുട്ട് വോൾട്ടേജിന്റെ ഒരു പരിധിക്ക് മാത്രമേ ഇത് നേടാനാകൂ അത് സർക്യൂട്ടിന്റെ നേട്ടത്തെ ആശ്രയിച്ചിരിക്കുന്നു ഞങ്ങൾ ഇൻപുട്ട് സിഗ്നൽ പ്രയോഗിക്കുമ്പോൾ സർക്യൂട്ടിന്റെ നേട്ടം ഉയർന്നതാണെന്ന് ഞങ്ങൾ ഇതിനകം കണ്ടു ബയാസ് വോൾട്ടേജ് കവിയുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് വികലമാകൂ ബയാസ് വോൾട്ടേജ് പ്ലസ് മൈനസ് 15 വോൾട്ട് ആണ് അതിനാൽ പ്രയോഗിക്കാവുന്ന പരമാവധി പോസിറ്റീവ് നെഗറ്റീവ് ഇൻപുട്ട് വോൾട്ടേജ് അങ്ങനെ op amp ഔട്ട്op amp ന്റെ ഇൻപുട്ട് വോൾട്ടേജ് ശ്രേണി എന്ന് വിളിക്കുന്നു പ്രവർത്തന ആംപ്ലിഫയറിന്റെ പരമാവധി പോസിറ്റീവ് അൺഡി സ്റ്റോർറെഡ് നെഗറ്റീവ് ഔപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുന്നു ഇത് പ്രവർത്തന ആംപ്ലിഫയറിന്റെ ബയാസ് വോൾട്ടേജിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതിനർത്ഥം പിൻ 7 പിൻ 4 എന്നിവയ്ക്ക് ഞങ്ങൾ നൽകുന്ന വോൾട്ടേജ് അതായത് Vcc Vee യഥാക്രമം ഔട്ട്പുട്ട് ഇൻപുട്ട് വോൾട്ടേജ് ശ്രേണി ഈ പ്രത്യേക വോൾട്ടേജിനെ ആശ്രയിച്ചിരിക്കുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ശ്രേണി മനസിലാക്കാൻ ഞങ്ങൾ ഉപയോഗിച്ച അതേ സർക്യൂട്ട് ഞങ്ങൾ വിപരീതമല്ലാത്ത ആംപ്ലിഫയർ മനസിലാക്കുന്നതിന് ഉപയോഗിക്കുന്നു ഞങ്ങൾ 0 5 V പീക്ക് ടു പീക്ക് 1kHz സൈൻ ഇൻപുട്ട് ടെർമിനലിൽ ൽ പ്രയോഗിക്കുന്നു 5 വോൾട്ടിന്റെ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡുകൾ വ്യത്യാസപ്പെടുത്തുകയും ഔട്ട്പുട്ട് വോൾട്ടേജ് അനുബന്ധങ്ങൾ കുറിക്കുകയും ചെയ്യുന്നു അതായത് തുടക്കത്തിൽ 0 5 പിന്നെ 1 1 5 2 പിന്നെ 2 ഔട്ട്പുട്ട് വോൾട്ടേജ് സാച്ചുറേഷൻ വോൾട്ടേജിനേക്കാൾ Vcc Vee കൂടുതലാകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ക്ലിപ്പിംഗ്ഞങ്ങൾ നിരീക്ഷിക്കുന്നു ഇൻവെർട്ടിംഗിലും ഇൻവെർട്ടിംഗ് അല്ലാത്ത ആംപ്ലിഫയറിലുമുള്ള ഇൻപുട്ട് സിഗ്നൽ അല്ലെങ്കിൽ 2 വോൾട്ടുകളും നേട്ടവും ഏകദേശം 12 ആയിരുന്നു അതിനാൽ 2 മുതൽ 12 വരെ 24 ആയിരിക്കും ഔട്ട്പുട്ടിൽ നമുക്ക് 24 V കാണാൻ കഴിയില്ല കാരണം ഞങ്ങൾ നൽകുന്ന ബയാസ് വോൾട്ടേജ് 15 ആണ് അതിനാൽ ഇത് മനസിലാക്കാൻ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഓർക്കുക അതിനർത്ഥം ചുവടെയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ജോഡികളുടെ ശ്രേണി എഡ്ജ് ക്ലിപ്പിംഗ് നിരീക്ഷിച്ചിട്ടില്ല ഇൻപുട്ടിനെയും ഔട്ട്പുട്ട് വോൾട്ടേജിനെയും പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ ഈ പ്രത്യേക പട്ടിക കണ്ടാൽ ഞങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് എഴുതണം അതിനാൽ ആദ്യം നമുക്ക് എഴുതാം 0 5 വോൾട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് അനുയോജ്യമായ ഔട്ട്പുട്ട് എന്താണ് അളക്കുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ശ്രേണി മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതിനാൽ നമുക്ക് ഈ പരീക്ഷണം നടത്താൻ കഴിയും ഏതെങ്കിലും ലബോറട്ടറി അവസ്ഥ ഞാൻ ഏതെങ്കിലും ലബോറട്ടറി അവസ്ഥ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടേതാണെന്ന് അർത്ഥമാക്കുന്നു ഡിസി പവർ സപ്ലൈ ഒരു ഫംഗ്ഷൻ ജനറേറ്റർ അല്ലെങ്കിൽ ഓസിലോസ്കോപ്പ് ഒപ് ആമ്പ് ബ്രെഡ്ബോർഡ് കൂടാതെ ചിലത് ഇത് ബന്ധിപ്പിക്കുന്നതിനുള്ള കണക്റ്ററുകൾ തുടർന്ന് നിങ്ങൾക്ക് പരീക്ഷണം വളരെ എളുപ്പത്തിൽ നടത്താൻ കഴിയും അതിനാൽ വിപരീതമല്ലാത്ത ആംപ്ലിഫയറിന്റെ ബ്രെഡ്ബോർഡ് നമുക്ക് നോക്കാം ഞാൻ സർക്യൂട്ട് മാറ്റിയിട്ടില്ല കാരണം മാറ്റത്തിന്റെ ഉപയോഗമില്ല ഇൻപുട്ട് മനസിലാക്കുന്നതിനുള്ള സർക്യൂട്ട് കൂടാതെ 0 5 വോൾട്ട് 1 ന്റെ ഇൻപുട്ട് വോൾട്ടേജ് പ്രയോഗിച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഞങ്ങൾ കാണേണ്ടത് kilohertz ഔട്ട്പുട്ട് എന്തായിരിക്കും ഞങ്ങൾ ഇൻപുട്ട് കാണുന്നു ഞങ്ങൾ ഔട്ട്പുട്ട് കാണുന്നു ഞങ്ങൾ ഇൻപുട്ട് വർദ്ധിപ്പിക്കുന്നു ഔട്ട്പുട്ടിൽ മാറ്റം ഞങ്ങൾ കാണുന്നു ഞങ്ങൾ തുടരുന്നു ഇൻപുട്ട് വർദ്ധിപ്പിക്കുക ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നത് ഞങ്ങൾ കാണുന്നു എന്നാൽ ആ ഔട്ട്പുട്ട് ബയസ് വോൾട്ടേജിനേക്കാൾ കൂടുതലുള്ള പോയിന്റ് ൽ ഒറ്റയടിക്ക് ക്ലിപ്പ് ചെയ്യും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്ലിപ്പിനേക്കാൾ അല്പം കുറവായിരിക്കും ബയാസ് വോൾട്ടേജ് എന്താണ് അതായത് 15 വോൾട്ട് അത് 13 5 അല്ലെങ്കിൽ 13 6 ന് എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്യും അതിനാൽ ആദ്യം നമുക്ക് 0 5 വോൾട്ട് പ്രയോഗിക്കാം അതിനാൽ വീണ്ടും സുമൻ ഞങ്ങളെ സഹായിക്കാൻ പോകുന്നു അതിനാൽ സുമന് കഴിയും ഫംഗ്ഷൻ ജനറേറ്ററിൽ 0 5 വോൾട്ട് പ്രയോഗിക്കുക അതെ ശരി ഇപ്പോൾ ഇത് ഇതിനകം 500 മില്ലിവോൾട്ടാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് 1 കിലോ ഹെർട്സ് ആവൃത്തിയിൽ 0 5 വോൾട്ട് നോൺ ഇൻവെർട്ടിംഗ് പ്രവർത്തനത്തിന്റെ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ പറയാൻ കഴിയും ഔട്ട്പുട്ടിൽ 6 വോൾട്ട് 6 2 വോൾട്ട് കാണാം നിങ്ങൾക്ക് നീല നിറമുള്ള കാര്യം കാണാൻ കഴിയും ഔട്ട്പുട്ടിൽ 6 2 വോൾട്ട് ഇൻപുട്ട് മഞ്ഞ ഒരു പീക്ക് മുതൽ പീക്ക് വരെ 540 മില്ലിവോൾട്ട് അതിനർത്ഥം ഇപ്പോഴും ഔട്ട്പുട്ട് ക്ലിപ്പ് ചെയ്തിട്ടില്ല 0 5 ശരി ഈ നിങ്ങളുടെ നേട്ടത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ മറക്കരുത് നിങ്ങൾ ഒരു നേട്ടം വളരെ ഉയർന്നതാണെങ്കിൽ 0 5 പോലും നിങ്ങളുടെ വോൾട്ടേജ് ശ്രേണിയായിരിക്കും അതിനാൽ 0 5 ന് താഴെയുള്ള എന്തും നിങ്ങൾക്ക് ഇൻപുട്ട് വോൾട്ടേജ് ശ്രേണിയായി ഉപയോഗിക്കാൻ കഴിയും അതിനാൽ ഇത് നിങ്ങളുടെ നേട്ടം ആശ്രയിച്ചിരിക്കുന്നു ഞാൻ എന്റെ നേട്ടം 11 ന് ചുറ്റും നിലനിർത്തുകയാണെങ്കിൽ 0 5 തവണ 11 ചുറ്റും എവിടെയോ ആയിരിക്കും 5 5 അതിനാൽ ഇത് ഞങ്ങൾക്ക് ഏകദേശം 6 വോൾട്ട് നൽകും കാരണം റെസിസ്റ്ററുകളുടെ അവസാന സമയം ഞാൻ നിങ്ങളോട് പറഞ്ഞു റെസിസ്റ്ററുകളുടെ മൂല്യം പൊരുത്തപ്പെടാത്തത് കൃത്യമല്ല അതിനാലാണ് ഇപ്പോൾ നമുക്ക് വർദ്ധിപ്പിക്കാം 1 വോൾട്ട് വരെ ഇപ്പോൾ അദ്ദേഹം വോൾട്ടേജ് 1 വോൾട്ടായി ഉയർത്തുന്നു ഇപ്പോൾ ഞങ്ങൾ 1 04 ന്റെ ഇൻപുട്ട് പ്രയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് 12 6 ന്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നു ഇപ്പോഴും അങ്ങനെയല്ല ക്ലിപ്പ് ചെയ്തു കാരണം ഇപ്പോഴും ഈ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നൽ ബയാസ് വോൾട്ടേജിനേക്കാൾ കുറവാണ് ഇപ്പോൾ ഇത് മറ്റൊരു 0 5 അതായത് 1 04 അല്ലെങ്കിൽ 1 വോൾട്ട് 1 5 വോൾട്ടായി വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാം അതിനാൽ അവൻ ഫ്രീക്വൻസി ജനറേറ്റർ മാറ്റുന്നു ഇപ്പോൾ ഉള്ള ഫ്രീക്വൻസി ജനറേറ്ററിൽ നിന്നുള്ള സിഗ്നൽ 1 5 വോൾട്ട് 1 5 വോൾട്ട് ഇപ്പോൾ 1 5 വോൾട്ട് ഒരു ക്ലിപ്പിംഗ് സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം കാരണം പീക്ക് ടു പീക്ക് ഔട്ട്പുട്ട് ആണ് ഏകദേശം 15 വോൾട്ട് ഇത് ഞങ്ങളുടെ ബയസ് വോൾട്ടേജിന് വളരെ അടുത്താണ് പെട്ടെന്ന് ഞങ്ങൾ ക്ലിപ്പിംഗ് കാണും അതിനർത്ഥം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഇൻപുട്ട് എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും വോൾട്ടേജ് ശ്രേണി കണ്ടെത്താൻ കഴിയും ഔട്ട്പുട്ട് വോൾട്ടേജ് ശ്രേണി എന്താണ് അതിനാൽ ഇത് വളരെ ലളിതമായ പരീക്ഷണമാണ് നിങ്ങൾക്ക് 5മിനിറ്റ് നുള്ളിൽ ഈ പരീക്ഷണം നടത്താൻ കഴിയും സംയോജിത സർക്യൂട്ട്ൻറെ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ശ്രേണി എന്താണെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും അതാണ് നിങ്ങളുടെ പ്രവർത്തന ആംപ്ലിഫയർ മാത്രമല്ല ഇത് നിങ്ങൾ പ്രയോഗിക്കുന്ന വോൾട്ടേജ് പക്ഷപാതത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും ഓർമ്മിക്കുക അതിനാൽ അടുത്ത വിഭാഗത്തിലേക്ക് വേഗത്തിൽ പോകാം വോൾട്ടേജ് ഫോളോവർ അതിനാൽ ഈ വോൾട്ടേജ് ഫോളോവർ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന വോൾട്ടേജ് ഫോളോവർ ഞങ്ങൾക്കറിയാം തുല്യമായ വോൾട്ടേജ് ഫോളോവർ മോഡലായി ഇത് ഒരു ആകർഷണീയ നേട്ട ആംപ്ലിഫയറായി ഉപയോഗിക്കുക നമുക്ക് ഇത് വരയ്ക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഇതൊരു വോൾട്ടേജ് ഫോളോവർ ആണ് നോൺവെർട്ടിംഗ് ടെർമിനലിൽ ഞങ്ങൾ ഇൻപുട്ട് പ്രയോഗിക്കുന്നു മാത്രമല്ല ഇൻവെർട്ടിംഗ് ടെർമിനലിനൊപ്പം ഔട്ട്പുട്ട് ചെറുതാക്കണം ഇൻപുട്ടിൽ ഏത് വോൾട്ടേജും ഉണ്ടാകും അതേ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ ദൃശ്യമാകും ഇൻപുട്ട് വോൾട്ടേജ് ഫോളോവറിന്റെ പ്രതിരോധം അനന്തമാണ് അങ്ങനെയാണ് നമുക്ക് തുല്യമായത് വരയ്ക്കാൻ കഴിയുക സർക്യൂട്ട് അല്ലെങ്കിൽ തുല്യ വോൾട്ടേജ് ആംപ്ലിഫയർ മോഡൽ അതിനാൽ ഒരു വോൾട്ടേജ് ഫോളോവറിന്റെ ഔട്ട്പുട്ട് പ്രതിരോധം 0 ഔട്ട്പുട്ട് വോൾട്ടേജ് 0 നേട്ടം 1 അതിനാൽ ഞങ്ങൾ നേട്ടം 1 ന് തുല്യമാണ് യഥാർത്ഥത്തിൽ ആംപ്ലിഫയർ മോഡൽ മനസിലാക്കാൻ വളരെ എളുപ്പമാണ് ഏത് തരം ഇലക്ട്രോണിക് മൊഡ്യൂളുകളാണ് നിങ്ങൾ വോൾട്ടേജ് ഫോളോവർൽ ഉപയോഗിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങൾ BJTയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും പഠിച്ചുവെന്ന് കരുതുക സാധാരണമാണ് എമിറ്റർ ആംപ്ലിഫയർ കോമൺ ബേസ് ആംപ്ലിഫയർ കോമൺ കളക്ടർ ആംപ്ലിഫയർ കോമൺ കളക്ടർ ആംപ്ലിഫയർ വീണ്ടും വോൾട്ടേജ് ഫോളോവർ അല്ലാതെ മറ്റൊന്നുമല്ല വായിൽ നിന്നുള്ള ഈ സിഗ്നൽ എങ്ങനെയാണ് ഈ മൈക്കിലേക്ക് പോകുന്നത് മൈക്കിലൂടെ ഒരു ഇലക്ട്രോണിക് മൊഡ്യൂൾ ഉണ്ട് അത് സ്പീക്കറിലേക്ക് മാറ്റി ഒടുവിൽ ഏത് തരം സർക്യൂട്ട് ആണ് സ്പീക്കർ ഇവിടെ ഇൻപുട്ട് സർക്യൂട്ട് ആകാം കൂടാതെ സ്പീക്കറിൽ ഏത് തരം സർക്യൂട്ട് ഔട്ട്പുട്ട് ആകാം അതിനാൽ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോണിക്സ് കാഴ്ചപ്പാടിൽ ഒരു പൊതു എമിറ്റർ ആംപ്ലിഫയറിന് ഉയർന്ന ഇൻപുട്ട് ഇംപെഡൻസ് ഉണ്ട് ഇത് എവിടെ ഉപയോഗിക്കാം പൊതു കളക്ടർ ആംപ്ലിഫയർ ശരി ഇത് ഒരു വോൾട്ടേജ് ഫോളോവർ ആണ് എന്നാൽ കറന്റ് വർദ്ധിപ്പിക്കാൻ കഴിയും ഒരു വോൾട്ടേജ് പിന്തുടരുന്നു എന്നാൽ കറന്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നു അല്ലേ അതിനാൽ ഇത് എവിടെ ഉപയോഗിക്കാം നിങ്ങളുടെ ഇലക്ട്രോണിക്സ് യഥാർത്ഥ ജീവിത ആപ്ലിക്കേഷനുകളുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് മനസിലാക്കാൻ വളരെ എളുപ്പമാണ് അതിനാൽ ഒരു മൈക്രോഫോൺ സ്പീക്കർ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നു അതിനാൽ ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ട് സിഗ്നൽ ഒരു സാധാരണ എമിറ്റർ ആംപ്ലിഫയർ ആകാം ഇലക്ട്രോണിക് മോഡൽ അതായത് ഇൻപുട്ട് സാധാരണ എമിറ്റർ ആംപ്ലിഫയർ ആയിരിക്കും ഔട്ട്പുട്ട് സ്പീക്കർ അതിനാൽ അവിടെ ഞങ്ങൾക്ക് വോൾട്ടേജ് ഫോളോവർ ആവശ്യമാണ് അതാണ് ഞങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് വോൾട്ടേജ് ഫോളോയർ സർക്യൂട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് എങ്ങനെ അളക്കാൻ കഴിയും എന്താണ് വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ഇൻപുട്ടിലെ വോൾട്ടേജ് എന്താണ് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്താണ് അതാണ് ലക്ഷ്യം അതാണ് വോൾട്ടേജ് ഫോളോവർ മനസ്സിലാക്കുന്നതിന്റെ ലക്ഷ്യം അതിനാൽ ഈ പ്രത്യേക സർക്യൂട്ട് ഞാൻ പഠിക്കുകയാണെങ്കിൽ എനിക്ക് അത് എവിടെ ഉപയോഗിക്കാമെന്ന് എല്ലായ്പ്പോഴും മനസിലാക്കാൻ ശ്രമിക്കുക അതിനാൽ ഇപ്പോൾ എനിക്ക് ഒരു വോൾട്ടേജ് ഫോളോവർ ഉണ്ടോ ഇല്ലെങ്കിൽ ഒരു പരീക്ഷണം നടത്താമോ എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഒരു വോൾട്ടേജ് ഫോളോവർ ഉപയോഗിച്ച് നിങ്ങൾ സർക്യൂട്ട് ഉപയോഗിക്കേണ്ടതുണ്ട് അതിനർത്ഥം ഓപ്പറേഷൻ ആംപ്ലിഫയർ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾ കണക്റ്റുചെയ്യണം 1 കിലോ ഹെർട്സ് വേഗതയിൽ 1 വോൾട്ട് പീക്ക് ടു പീക്ക് സൈൻ വേവ് ഇവിടെ ഇൻപുട്ട് Vin ലേക്ക് പ്രയോഗിക്കുക പിന്നെ Vout നിരീക്ഷിച്ച് പട്ടികയിലെ ഏറ്റവും ഉയർന്ന മൂല്യത്തിലേക്ക് ശ്രദ്ധിക്കുക ഇപ്പോൾ ഉയർന്നതും താഴ്ന്നതുമായ ആംപ്ലിറ്റ്യൂഡുകൾക്കായുള്ള പരീക്ഷണങ്ങൾആവർത്തിക്കുക നിരീക്ഷണങ്ങൾ ശ്രദ്ധിക്കുക അവസാനമായി പട്ടികയിൽ കാണുന്ന നേട്ടം കണക്കാക്കി സൈദ്ധാന്തിക നേട്ടവുമായി താരതമ്യം ചെയ്യുക ഇപ്പോൾ ഞങ്ങൾ ബ്രെഡ്ബോർഡ് ഉപയോഗിക്കുക അതിനാൽ ഞങ്ങൾ ഇപ്പോൾ വോൾട്ടേജ് ഫോളോയർ സർക്യൂട്ട് മനസ്സിലാക്കുന്നു ബ്രെഡ്ബോർഡിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതുപോലെ വോൾട്ടേജ് ഫോളോവറുമായി ബന്ധിപ്പിക്കുക അതിനാൽ അവൻ എന്താണ് ചെയ്യുന്നത് ആദ്യം അദ്ദേഹം ബയസ് വോൾട്ടേജുകൾ 15 പ്രയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ മനസിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഇലക്ട്രോണിക്സ് അറിയില്ലാത്ത ഒരു വ്യക്തിക്ക് അതേ കാര്യം വിശദീകരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് ബോധ്യം ആകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഇതിനകം വിഷയം അറിയാമെന്നാണ് അതിനാൽ വോൾട്ടേജ് ഫോളോവറിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകി ആംപ്ലിഫയറിനെക്കുറിച്ച് എവിടെ ഞങ്ങൾ ആംപ്ലിഫയർ ഉപയോഗിക്കും തത്സമയ ഉദാഹരണങ്ങൾ നൽകുക അത് രസകരമാകും അതിനാൽ ഇപ്പോൾ ബ്രെഡ്ബോർഡിലെ വോൾട്ടേജ് ഫോളോവർ കാണുക സർക്യൂട്ട് ഇതിനകം തന്നെ ബന്ധിപ്പിച്ചുഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് പ്രയോഗിക്കും അപ്പോൾ എന്താണ് വോൾട്ടേജ് ഗ്രൌണ്ട് എങ്ങനെ ബന്ധിപ്പിക്കും 2 പ്രോബക്ക്ളുണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഒന്ന് ചെറുതാണ് ചെറുത് ഗ്രൌണ്ട് ചെയ്യുന്നു ദൈർഘ്യമേറിയത് സിഗ്നലിലേക്ക് പോകുന്നു ഔട്ട്പുട്ട് വേവ് ഫോം ക്രമീകരിക്കാൻ കഴിയുമോ ഔട്ട്പുട്ടിന്റെ വ്യാപ്തി മാറ്റുക നിങ്ങൾക്ക് യാന്ത്രിക സ്കെയിൽ അമർത്താൻ കഴിയുമോ വളരെ എളുപ്പമുള്ള ഒരു വ്യവസ്ഥയുണ്ടെന്ന് കാണുക അതിനാൽ ഓസിലോസ്കോപ്പ് മനസിലാക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ വളരെ പരിചിതമാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു യാന്ത്രിക സ്കെയിൽ അമർത്തുക നിങ്ങളുടെ ഓസിലോസ്കോപ്പിൽ ബട്ടൺ ഒന്ന് ഉണ്ടെങ്കിൽ ഇത് യാന്ത്രികമായി സ്കെയിൽ ചെയ്യും മാത്രമല്ല ഇത് വളരെ എളുപ്പവുമാണ്നിങ്ങൾ മനസ്സിലാക്കാൻ അതിനാൽ ഞങ്ങൾ നോക്കുന്നത് 1 കിലോ ഹെർട്സ് ആവൃത്തി 1 വോൾട്ട് പീക്ക് ടു പീക്ക് ഇൻപുട്ടിൽ പ്രയോഗിച്ചു അതിനാൽ ഔട്ട്പുട്ട് ഇൻപുട്ട് വോൾട്ടേജ് ഫോളോവറിനെ പിന്തുടരും ഔട്ട്പുട്ട് ഇൻപുട്ടിനെ ഏതെങ്കിലും വിപുലീകരണം കൂടാതെ പിന്തുടരും അതിനാൽ ഇൻപുട്ട് DC ഔട്ട്പുട്ട് DC ചാനൽ 1 2 എന്നിവയിൽ പീക്ക് ടു പീക്ക് വോൾട്ടേജ് കണ്ടാൽ വോൾട്ടേജ് തുല്യമാണ് അതിനാൽ വോൾട്ടേജ് ഫോളോവർ അതിനർത്ഥം ഇൻപുട്ടിനെക്കുറിച്ചുള്ള വോൾട്ടേജ് പിന്തുടരാൻ ഈ സർക്യൂട്ട് ഉപയോഗിക്കാം ശരിയാണ് ഇതിന് ഔട്ട്പുട്ടിന്റെ അതേ വോൾട്ടേജ് ഉണ്ടാകും ഈ വോൾട്ടേജ് ഫോളോവർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതിനെ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ എന്നും വിളിക്കുന്നത് കാരണം നേട്ടം ഐക്യമാണ് കൂടാതെ എന്തുകൊണ്ടാണ് ഇതിനെ ബഫർ എന്ന് വിളിക്കുന്നത് ശരി അതിനാൽ നിങ്ങൾ പുതിയ പദങ്ങൾ കേൾക്കുമ്പോൾ ശ്രമിക്കുക എന്തുകൊണ്ടാണ് ഇതിനെ ബഫർ എന്ന് വിളിക്കുന്നത് എന്ന് മനസിലാക്കുക എന്തുകൊണ്ടാണ് ഐക്യം നേട്ടം വർദ്ധിപ്പിക്കുന്നത് എന്താണ് റോൾ എന്താണ് മറ്റ് പ്രായോഗിക ആപ്ലിക്കേഷനുകളിൽ ഈ പ്രത്യേക വോൾട്ടേജ് ഫോളോവറുടെ മറ്റ് പങ്ക് അല്ലേ അതിനാൽ നിങ്ങളുടെ അറിവിനെ പ്രായോഗിക ആപ്ലിക്കേഷനുകളുമായി ബന്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക അതിനാൽ ഐക്യ നേട്ട ആംപ്ലിഫയറിനെക്കുറിച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ നേടാൻ ശ്രമിക്കുക അതിനാൽ ഞങ്ങൾ ഇത് വോൾട്ടേജ് ഫോളോയർ സർക്യൂട്ട് ഉള്ള പ്രത്യേക മൊഡ്യൂൾ പൂർത്തിയാക്കും അടുത്ത മൊഡ്യൂളിൽ ഞങ്ങൾ ആംപ്ലിഫയർ സംഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ചർച്ചചെയ്യും അതിനാൽ അടുത്ത മൊഡ്യൂളിൽ ഞാൻ നിങ്ങളെ കാണും ശ്രദ്ധിക്കുക